കാന്തിക വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ ഒരു കാന്തത്തിന്റെ കാന്തിക മണ്ഡലത്തിനുള്ള വസ്തുതകൾ മാഗ്നറ്റിക് മൊമെന്റ് m ഉം ഓക്സിലിയറി ഫീൽഡ് h ഉം ഉപയോഗിച്ച് കാന്തികക്ഷേത്രം കണക്കുകൂട്ടുന്നതിനായി നമ്മുടെ സംവിധാനങ്ങൾ തയ്യാറാക്കിയശേഷം നമ്മൾ ഇപ്പോൾ കാന്തിക വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് അതിനാൽ കാന്തിക വസ്തുക്കളെ മൂന്ന് വിഭാഗങ്ങളായി തരo തിരിക്കാം ഇവ പരാമാഗ്നറ്റിക് ഡയമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് എന്നിവയാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയലുകൾ പ്രയോഗിച്ച ഫീൽഡിന്റെ ദിശയിൽ ഒരു കാന്തികവൽക്കരണം വികസിപ്പിക്കുന്നു അതിനാൽ ഞാൻ ഈ മാതൃക എടുത്ത് ഒരു കാന്തികക്ഷേത്രം പ്രയോഗിക്കുകയാണെങ്കിൽ അത് ആ ദിശയിൽ ഒരു കാന്തികവൽക്കരണം വികസിപ്പിക്കും ഡയമാഗ്നറ്റിക് മെറ്റീരിയലുകൾ പ്രയോഗിച്ച ഫീൽഡിന് വിപരീതമായി ഒരു കാന്തികവൽക്കരണം വികസിപ്പിക്കുകയും ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലുകൾ പ്രയോഗിച്ച ഫീൽഡിന്റെ ദിശയിൽ ഒരു വലിയ കാന്തികവൽക്കരണം വികസിപ്പിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ഇത് ചിത്രപരമായി കാണിക്കാം ഞാൻ പാരമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഒരു മാതൃക എടുത്ത് ഒരു യൂണിഫോം ഫീൽഡിൽ വയ്ക്കുകയാണെങ്കിൽ ഇത് പ്രയോഗിച്ച ഫീൽഡിന്റെ ദിശയിൽ ഒരു കാന്തികവൽക്കരണം വികസിപ്പിക്കും അതിനാൽ ഇത് ഇതുപോലുള്ള ഒരു കാന്തികവൽക്കരണം വികസിപ്പിക്കുകയും അത് അകത്തും പുറത്തും അധിക കാന്തികക്ഷേത്രത്തിന് കാരണമാവുകയും ചെയ്യും അകത്ത് ഇത് നീളമുള്ളതാണെങ്കിൽ അത് ഒരു ഏകീകൃത അധിക കാന്തികക്ഷേത്രമായിരിക്കുമെന്ന് നമ്മൾ കണ്ടു തൽഫലമായി പുറത്തുള്ള ഈ ഫീൽഡ് പ്രയോഗിച്ച ഫീൽഡിന് എതിരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിനാൽ ഫീൽഡ് അല്പം കുറയും പക്ഷേ അറ്റങ്ങൾക്ക് സമീപം ശക്തമായ ഫീൽഡ് ആണുള്ളത് ഞാൻ ഇപ്പോൾ ഇത് മായ്ച്ചുകളയട്ടെ അവസാന വരികൾ കൂടുതൽ ശക്തമാകുമെന്ന് ഞാൻ കാണിക്കുന്നതാണ് അതിനാൽ നമ്മൾ പ്രയോഗിച്ച ഈ വരികൾ ഇവിടെ ദുർബലമാകും അതുകൊണ്ട് അവ ഇവിടെ വീണ്ടും ശക്തമായിരിക്കും അതിനാൽ കൂടുതൽ വരികൾ വരികയും ഇവിടെ ദുർബലമാവുകയും ചെയ്യുന്നു ഒരു ഏകീകൃത കാന്തിക മണ്ഡലത്തിൽ ആയിരിക്കുമ്പോൾ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൽ ചുറ്റുമുള്ള രേഖകൾ എങ്ങനെ കാണപ്പെടുമെന്നതാണ് ഇത് ഇനി ഞാൻ ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്ത് സമാന യൂണിഫോം ഫീൽഡിൽ വച്ചാൽ അത് വിപരീത ദിശയിൽ ഒരു കാന്തികവൽക്കരണം വികസിപ്പിക്കും ഇത് വിപരീത ദിശയിൽ കാന്തികവൽക്കരണം വികസിപ്പിക്കുന്നു എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതിനർത്ഥം സൃഷ്ടിക്കുന്ന പുതിയ ഫീൽഡ് ലൈനുകൾ ഇതുപോലുള്ളതായിരിക്കും പുറത്ത് പ്രയോഗിച്ച ഫീൽഡിന്റെ ദിശയിലും അകത്ത് പ്രയോഗിച്ച ഫീൽഡിന് വിപരീതവും ആയിരിക്കും അതിനാൽ ഫീൽഡ് അകത്ത് ദുർബലമാകും അതിനർത്ഥം ഇവിടെ വശങ്ങൾക്ക് സമീപത്തായി വരികൾ അകന്നു പോവുകയും വശങ്ങൾക്ക് അകലെയായി ശക്തമാവുകയും ചെയ്യും പുറത്തെ അപേക്ഷിച്ച് ഇത് ഉള്ളിൽ ദുർബലമായിരിക്കും ഇത് ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയലാണ് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ ശക്തമായ കാന്തികവൽക്കരണം വികസിക്കുന്നു അതിനാൽ മിക്ക ലൈനുകളും അതിൽ പോകുന്നത് പരാമാഗ്നറ്റിക് മെറ്റീരിയൽ പോലെയാണ് പക്ഷേ കൂടുതൽ ലൈനുകളും അകത്തേക്ക് പോകുന്നു പുറത്തെ വളരെ ദുർബലമായ ഫീൽഡും ആയിരിക്കും ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇരുമ്പ് ഫയലിംഗുകൾക്ക് സമീപം എടുക്കുകയാണെങ്കിൽ ഇരുമ്പ് ഫയലിംഗുകൾ ധാരാളം അതിൻറെ അറ്റത്ത് കുടുങ്ങുന്നു ഈ സ്വഭാവം കാരണം സംഭവിക്കുന്നത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ശക്തമായ ഫീൽഡിലേക്ക് പോകും അതിന്റെ ഊർജ്ജം കുറയുന്നു ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ശക്തമായ ഫീൽഡിൽ നിന്ന് അകന്നുപോകും ഇത് ദുർബലമായ ഫീൽഡിലേക്ക് നീങ്ങുകയും ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ വളരെ ശക്തമായി ശക്തമായ ഒരു ഫീൽഡിലേക്ക് പോകുകയും ചെയ്യും ഇവിടെ നമ്മൾ പാരാ അഥവാ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലുകളെ കുറിച്ച് കൈകാര്യം ചെയ്യാൻ പോകുന്നു അവ എന്താണെന്ന് ഞാൻ വീണ്ടും നിർവ്വചിക്കട്ടെ ഇവയാണ് പ്രയോഗിച്ച ഫീൽഡിന് ആനുപാതികമായ ഒരു മാഗ്നറ്റിക് മൊമൻറ് വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ ഇത് ഒരു കാന്തിക സംവേദനക്ഷമതയ്ക്ക് തുല്യമാണ് അതായത് chi m തവണ H നു തുല്യമാണ് MMH ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി വീണ്ടും സമാനതയുണ്ട് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എവിടെയെങ്കിലും ഒരു വൈദ്യുത മണ്ഡലം ഉണ്ടായിരുന്നെങ്കിൽ അത് ധ്രുവീകരണം P എന്നതിനെ എപ്സിലോൺ നോട്ട് chi e ഇലക്ട്രിക് ഫീൽഡ് E ആയി വികസിപ്പിക്കുമായിരുന്നു ഇലക്ട്രിക്കൽ കേസിലും മാഗ്നെറ്റിക് കേസിലുമുള്ള സംവേദനക്ഷമതയെ നമ്മൾ നിർവചിച്ച രീതിയിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇലക്ട്രിക്കൽ കേസിൽ എപ്സിലോൺ നോട്ട് chi തവണ E ആയിരിക്കുന്നതാണ് ധ്രുവീകരണം ഇവിടെ E ഫീൽഡ് ആണ് കാന്തിക വസ്തുക്കളുടെ കാര്യത്തിൽ m എന്നത് ഓക്സിലിയറി ഫീൽഡ് ആയ H ന് ആനുപാതികമായി നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ mu 0 ഇല്ല അതിനാൽ പാരമാഗ്നറ്റിക് മെറ്റീരിയലുകൾക്ക് chi m എന്നത് പൂജ്യത്തെക്കാൾ കൂടുതലാണ് ഡയമഗ്നറ്റിക് മെറ്റീരിയലുകൾക്ക് chi m എന്നത് പൂജ്യത്തെക്കാൾ കുറവായിരിക്കും ഇവിടെ ചുവപ്പ് നിറത്തിലുള്ള ഈ ബോക്സിൽ നിങ്ങൾക്ക് നൽകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉണ്ടായിരുന്ന ഘടനാപരമായ ബന്ധമാണ് ഇതിൽ അതുപോലെ മാഗ്നെറ്റോസ്റ്റാറ്റിക്സിൽ ഉള്ള ബന്ധമാണ് കാണുന്നത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലുകൾക്ക് chi m പ്രയോഗിച്ച ഫീൽഡിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് ഒരു രേഖീയമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ഇത് ഹിസ്റ്റെറിസിസിലേക്കും നയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടവ ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നില്ല ഇവയുടെ സാങ്കേതികവശങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ മുമ്പ് ചെയ്തതിന് സമാനമാണ് അതിനാൽ ആ പ്രഭാഷണം വീണ്ടും കാണാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു കാരണം ഇപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പരിഹരിക്കാൻ പോകുന്നു ആദ്യ ഉദാഹരണമായി നമുക്ക് കാന്തിക വസ്തുക്കളായ പാരമാഗ്നറ്റിക് അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻറെ ഒരു സാമ്പിൾ എടുത്ത് ഒരു യൂണിഫോം ഫീൽഡിൽ വയ്ക്കുക സാമ്പിൾ ആവശ്യത്തിന് വലുതാണ് അതിനാൽ അതിന്റെ ആരം R അതിന്റെ ഉയരം h നേക്കാൾ വളരെ കൂടുതലാണ് അതിനാൽ എനിക്ക് ഫ്രിഞ്ച് അവസ്ഥകൾ അവഗണിക്കാനാകും അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും അരികുകളുടെ പ്രഭാവം നിസ്സാരമായ ഒരു പ്രദേശം ഞാൻ പരിഗണിക്കുന്നു ഇപ്പോൾ ഇവിടെ ഞാൻ B പ്രയോഗിക്കുമ്പോൾ അത് ഒരു മാഗ്നറ്റിക് മൊമൻറ്ന് കാരണമാകും ഈ മാഗ്നറ്റിക് മൊമൻറ് ഇതുപോലുള്ള ബന്ധിത പ്രവാഹങ്ങളായി കണക്കാക്കാം ഇത് ഒരു ഏകീകൃത മാഗ്നറ്റിക് മൊമൻറ്ന് ആണ് അല്ലെങ്കിൽ h ന് കാരണമാകുന്ന കാന്തിക ചാർജ് ആയി m ൻറെ മൈനസ് ഡൈവർജൻസിനെ പരിഗണിച്ചും നമുക്ക് രണ്ട് തരത്തിലും പ്രശ്നം പരിഹരിക്കാം ഞാൻ ഈ മെറ്റീരിയലിൽ B പ്രയോഗിച്ചു ഒരു യൂണിഫോം കാന്തികമണ്ഡലം ഉള്ളിൽ എടുക്കുകയാണെങ്കിൽ h എന്ന പോയിൻറിലുള്ള മുകളിലെ ഉപരിതലത്തിൽ m ന്റെ ഡൈവർജൻസ് മൈനസ് m ഡെൽറ്റ z മൈനസ് h ആണ് ഞാൻ താഴെയുമുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ ഇത് m ഡെൽറ്റ z ആണ് ഇത് ഒരു ഉപരിതല ചാർജ് പോലെയാണ് അതിനാൽ ഡെൽ ഡോട്ട് h എന്നാൽ മൈനസ് ഡെൽ ഡോട്ട് m നു തുല്യമായിരിക്കും അപ്പോൾ ഇത് m ഡെൽറ്റ z മൈനസ് h മൈനസ് m ഡെൽറ്റ z ആയിരിക്കും അതിനാൽ ഇവിടെ പോസിറ്റീവ് ചാർജും ഇവിടെ നെഗറ്റീവ് ചാർജും ഉള്ള ഒരു h ആണ് നമ്മൾ ഇവിടെ കണക്കിലെടുക്കുന്നത് അതിനാൽ ഡെൽ ഡോട്ട് h ഈ സമവാക്യത്തെ തൃപ്തിപ്പെടുത്തുന്നു അതിനാൽ പുറത്ത് H എന്നാൽ B ഓവർ mu 0 ആയിരിക്കും അകത്ത് H എന്നാൽ പ്രയോഗിച്ച H ൻറെയും m കാരണമുണ്ടാകുന്ന H ൻറെയും തുകയായിരിക്കും ഇത് ഒരു യൂണിഫോം H ആയതിനാൽ ഇതിൻറെ ഡൈവർജൻസ് പൂജ്യമായിരിക്കും അതിനാൽ അകത്തുള്ള H എന്നത് B ഓവർ mu 0 പ്ലസ് m കാരണമുണ്ടാകുന്ന H ആണ് ഞാൻ ഇതു വരുമെന്നു പറയാൻ കാരണം ഇത് മുകളിൽ പോസിറ്റീവ് ചാർജും താഴെ നെഗറ്റീവ് ചാർജും ആണ് അപ്പോൾ ഇത് മൈനസ് m ആകുന്നു ഇവിടെ എപ്സിലോൺ 0 ഉണ്ടായിരിക്കുന്നതല്ല അതിനാൽ അകത്ത് H എന്നത് B ഓവർ mu 0 മൈനസ് M ആയിരിക്കും ഇപ്പോൾ സ്വയം ഒന്നു നോക്കാം ഇവിടെ M എന്നാൽ chi m തവണ ആ പോയിൻറ്ലുള്ള h ന് തുല്യമായിരിക്കും ഇവിടെ അകത്തുള്ള h എന്നാൽ chi m b ഓവർ mu 0 മൈനസ് m ആണ് ഇതിൽനിന്ന് chi m പ്ലസ് 1 m എന്നത് chi m b ഓവർ mu 0 ആണെന്ന് ലഭിക്കുന്നു ഇവിടെ m എന്നാൽ chi m ഓവർ chi m പ്ലസ് 1 b ഓവർ mu 0 എന്ന m ൻറെ ഒരു മൂല്യമാണ് അതുപോലെ B എന്നത് പ്രയോഗിച്ച B യുടെയും m കാരണം ഉണ്ടായ B യുടെയും തുകയായിരിക്കും കൂടാതെ h എന്നാൽ പ്രയോഗിച്ച h ൻറെയും m കാരണം ഉണ്ടായ h ൻറെയും തുകയായിരിക്കും ഇത് b ഓവർ mu 0 മൈനസ് chi m ഓവർ chi m പ്ലസ് 1 b ഓവർ mu 0 ആയിരിക്കും അത് വീണ്ടും b ഓവർ mu 0 1 ഓവർ chi m പ്ലസ് 1 എന്നതിന് തുല്യമായിരിക്കും അതിനാൽ ഇവയെല്ലാം ഉപയോഗിച്ച് m എന്നാൽ chi m ഓവർ chi m പ്ലസ് 1 b ഓവർ mu 0 എന്ന് ലഭിക്കും H എന്നാൽ b ഓവർ mu 0 1 ഓവർ chi m പ്ലസ് 1 ആയിരിക്കും അതിനാൽ നെറ്റ് ഫീൽഡ് b എന്നത് mu 0 h plus m ന് തുല്യമായിരിക്കും അത് b ആകുന്നു അതിനാൽ അകത്തുള്ള b സമാനമായിരിക്കും അത് chi m നെ ബാധിക്കുകയില്ല MMHinsideMB0 M M1MMB0 MMM1B0 BBapplied Bdue to M HHapplied Hdue to MB0 MM1B0B01M1 Net field B0HM ഇത് ആശ്ചര്യകരമല്ല കാരണം ഈ മെറ്റീരിയലിൽ ഞാൻ ഈ ബോക്സ് തിരഞ്ഞെടുത്താൽ എനിക്ക് ഡെൽ ഡോട്ട് B 0 ന് തുല്യമാണ് ലഭിക്കുക ഇത് B ലംബമായി തുടർച്ചയായിരിക്കണം അതാണ് നമ്മൾ കാണുന്ന ഫലം നിങ്ങൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഉദാഹരണം ഒരു നീണ്ട സോളിനോയിഡ് ആണ് ഇത് ഒരു യൂണിഫോം ഫീൽഡിൽ വീണ്ടും വെക്കുന്നു ഇത് ഞാൻ പരിശീലനത്തിനായി വയ്ക്കുന്നു മൂന്നാമത്തെ ഉദാഹരണം ഞാൻ വീണ്ടും ചെയ്യാൻ പോകുകയാണ് പുറത്ത് ഒരു യൂണിഫോം ഫീൽഡിൽ സ്ഥാപിച്ചിട്ടുള്ള chi m മാഗ്നെറ്റിക് മൊമെൻറ് ഉള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച ഗോളത്തിന്റെ ഒരു സ്റ്റാൻഡർഡ് ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നതാണ് ഒരേ ദിശയിൽ m എന്ന മാഗ്നെറ്റിക് മൊമെൻറ് വികസിപ്പിക്കുന്നുവെന്ന് അനുമാനിച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത് നമുക്ക് ഈ ദിശ z ആയി എടുക്കാം ഇപ്പോൾ എനിക്ക് h രീതിയിലൂടെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ മുൻപ് കണ്ടതുപോലെ എനിക്ക് ഡെൽ ഡോട്ട് h ലഭിക്കുന്നത് മൈനസ് ഡെൽ ഡോട്ട് m ന് തുല്യമായാണ് ഇതിനർത്ഥം എനിക്ക് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് അത് m കോസൈൻ തീറ്റ ആണ് താഴത്തെ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് ആണ് അതുപോലെ ഇവിടെയും അത് m കോസൈൻ തീറ്റ ആണ് അതിനാൽ h ഈ ദിശയിലായിരിക്കും ഇവിടെ സൌജന്യ കറന്റ് ഇല്ലാത്തതിനാൽ ഡെൽ ക്രോസ് h 0 ആയിരിക്കും അതിനാൽ ഇത് മൈനസ് m ഹരിക്കണം ആകും അപ്പോൾ അകത്തുള്ള h പ്രയോഗിക്കുന്ന h ൻറെയും m കാരണം ഉണ്ടാകുന്ന h ൻറെയും തുകയായിരിക്കും അതായത് അത് b ഓവർ mu 0 മൈനസ് m ഹരിക്കണം 3 ആകുന്നു എന്നാൽ m എന്നാൽ chi m തവണ അകത്തുള്ള h ന് തുല്യമായിരിക്കും അതായത് അത് chi m b ഓവർ mu 0 മൈനസ് chi m m ഓവർ 3 ആയിരിക്കും m ഇപ്പോൾ ഇതിനു തുല്യമായിരിക്കും കൂടാതെ 3 പ്ലസ് chi m ഓവർ 3 m എന്നാൽ chi m b ഓവർ mu 0 ന് തുല്യമായിരിക്കും അതിൽനിന്ന് m എന്നതിനെ 3 chi m ഓവർ 3 പ്ലസ് chi m തവണ b ഓവർ mu 0 ക്ക് തുല്യമാണെന്ന് പറയാം H MH M3 HinsideHappliedHdue to MB0 M3 MMB0 MM3 M3M3MB0 അതിനാൽ ഒരു യൂണിഫോം ഫീൽഡിൽ ഉള്ള ഗോളത്തിന്ൻറെ m നമുക്ക് ലഭിക്കുന്നത് 3 chi m ഓവർ 3 പ്ലസ് chi m തവണ b ഓവർ mu 0 ആയിരിക്കും h അതിനാൽ പ്രയോഗിച്ച h അഥവാ b ഓവർ mu 0 മൈനസ് chi m by 3 പ്ലസ് chi m b ഓവർ mu 0 ആകുന്നതാണ് ഈ സാഹചര്യത്തിൽ അത് 3 ഓവർ 3 പ്ലസ് chi m b ഓവർ mu 0 എന്നതിനു തുല്യമായിരിക്കും അതിനാൽ അകത്തുള്ള നെറ്റ് ഫീൽഡ് b എന്നാൽ mu 0 h പ്ലസ് m നു തുല്യമാണ് ഇത് 3 chi m പ്ലസ് 1 ഓവർ 3 പ്ലസ് chi m തവണ പ്രയോഗിച്ച b ക്ക് തുല്യമായിരിക്കും HB0 M3MB033MB0 Binside0HM3M13MBapplied അതിനാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ധ്രുവീകരിക്കാവുന്ന മെറ്റീരിയൽ ഉണ്ടായിരുന്നപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഉപയോഗിക്കുന്ന വിദ്യകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഫീൽഡിൽ ഒരു കാന്തിക വസ്തു സ്ഥാപിക്കുമ്പോൾ ഉള്ളിലെ ഫീൽഡ് കണക്കുകൂട്ടാൻ സമാനമായ രീതികൾ ഇവിടെ ഉപയോഗിക്കാം മറ്റൊരു മാർഗ്ഗം ഞാൻ ഊഹിച്ചപ്പോൾ എനിക്ക് m നെ h എന്ന രീതിയിലൂടെ അല്ല മറിച്ച് n ക്രോസ് m ആയ ഈ ബന്ധിതമായ വൈദ്യുത പ്രവാഹങ്ങൾക്ക് കാരണമാകുമെന്ന് എനിക്ക് ചിന്തിക്കാമായിരുന്നു അത് യഥാർത്ഥത്തിൽ എനിക്ക് എം സൈൻ തീറ്റ എന്ന് നൽകി കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങൾക്ക് മുമ്പ് ഇത് യഥാർത്ഥത്തിൽ അകത്ത് മൂന്നിൽ രണ്ട് mu 0 m ഉള്ള ഒരു ഫീൽഡിന് കാരണമാകുന്നു എന്ന് നമ്മൾ കണ്ടു അതിനാൽ ഇത് കണ്ടുപിടിക്കുന്നതിനായി അകത്തുള്ള b എന്നാൽ പ്രയോഗിക്കുന്ന b കൂടാതെ മൂന്നിൽ രണ്ട് mu 0 m എന്നതാണ് ഇത് അകത്തുള്ള h നെ b ഓവർ mu 0 മൈനസ് m ആയി നൽകുന്നു ഇതിനെ b ഓവർ mu 0 മൈനസ് 1 by 3 m ആയി എഴുതാവുന്നതാണ് ഇവിടെ m എന്നാൽ chi m തവണ അകത്തുള്ള h ആണ് അതിനെ chi m b ഓവർ mu 0 മൈനസ്chi m by 3 m എന്നതിനു തുല്യമായി എഴുതാവുന്നതാണ് ഇതിനെ വീണ്ടും m 3 പ്ലസ് chi m ഓവർ 3 എന്നാൽ chi m b ഓവർ mu 0 എന്ന് എഴുതാം ഇത് മുകളിലത്തെ സമവാക്യത്തിന് തുല്യമാണ് അതിനാൽ നിലവിലെ രീതി ഉപയോഗിച്ച് എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാനാകും ഇവിടെ b യുടെ അതേ ദിശയിലുള്ള ഒരു m ആണ് ഞാൻ അനുമാനിക്കുന്നത് ഒടുവിൽ ശ്രദ്ധിക്കുക പാരമാഗ്നറ്റിക് സ്വഭാവം കാരണം chi m ഉള്ളിൽ ഒരു b യേക്കാൾ വലുതാണെങ്കിൽ അകത്തുള്ള b പ്രയോഗിക്കുന്നതിനേക്കാൾ വലുതായിരിക്കും എന്നിരുന്നാലും ഈ chi m ഒന്നിലും കുറവാണ് അതിനാൽ ഇത് വ്യത്യസ്തമായിരിക്കുകയും പ്രയോഗിച്ച ഫീൽഡിനേക്കാൾ കുറവായിരിക്കുകയും ചെയ്യും BinB230H HinB0 13MMMHinMB0 M3M or M3M3MB0